എല്ലാവർക്കും നമസ്കാരം കോഴ്സിൻറ്റെ ഒരു പുതിയ ട്യൂട്ടോറിയൽ സെഷനിലേക്ക് സ്വാഗതം വ്യത്യസ്ത ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ നിന്നും ഡാറ്റ ശേഖരിക്കുന്നതിനും ഗെഫി പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് നെറ്റ്വർക്കുകൾ ദൃശ്യവൽക്കരിക്കുന്നതിനുമുള്ള ട്യൂട്ടോറിയലുകൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ട് ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ശേഖരിക്കുന്ന ഡാറ്റയ്ക്കായി മനോഹരമായ ദൃശ്യവൽക്കരണങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന സംവേദനാത്മക ജാവാസ്ക്രിപ്റ്റ് ചാർട്ടുകൾ ഞാൻ ഹൈചാർട്ടുകൾ അവതരിപ്പിക്കും പ്രത്യേകിച്ചും നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കും ഒന്ന് പൈത്തൺ സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് വിഷ്വലൈസേഷനുകൾ സൃഷ്ടിക്കുന്നു രണ്ടാമത്തേത് ഈ വിഷ്വലൈസേഷനുകൾ യാന്ത്രികമായി നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു ക്ലൌഡ് ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ഈ ട്യൂട്ടോറിയലിൽ ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റയിൽ നിന്ന് ഒരാൾക്ക് നിർമ്മിക്കാൻ കഴിയുന്ന നാല് തരം ഗ്രാഫുകളെക്കുറിച്ച് ഞാൻ സംസാരിക്കും നമുക്ക് അടിസ്ഥാന ബാർ ചാർട്ടിൽ നിന്ന് ആരംഭിക്കാം ചതുരാകൃതിയിലുള്ള ബാറുകളുള്ള ഗ്രൂപ്പ് ഡാറ്റ അവതരിപ്പിക്കുന്ന ഒരു ചാർട്ടാണ് ബാർ ചാർട്ട് ബാറുകളുടെ നീളം അവ പ്രതിനിധീകരിക്കുന്ന മൂല്യത്തിന് ആനുപാതികമാണ് ഇപ്പോൾ പൈത്തണിൽ കോഡിംഗ് ആരംഭിക്കുന്നതിന് നമുക്ക് ഒരു പൈത്തൺ റാപ്പർ ആവശ്യമാണ് ഇത് ഈ ദൃശ്യവൽക്കരണങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്നു പൈത്തണിനും ജാവാസ്ക്രിപ്റ്റിനും ഇടയിലുള്ള ലളിതമായ വിവർത്തന പാളിയാണ് റാപ്പർ ഇത് വിഷ്വലൈസേഷനുകൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്നു ഇത് കാര്യങ്ങൾ ഉപയോഗിക്കാൻ എളുപ്പമാക്കുന്നു ഇപ്പോൾ ഈ റാപ്പർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് നമുക്ക് ടെർമിനലിലേക്ക് പോയി സുഡോ പിപ്പ് ഇൻസ്റ്റാൾ പൈത്തൺ ഹൈചാർട്ടുകൾ ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക ഒരു ബാർ ചാർട്ട് സൃഷ്ടിക്കുന്നതിനുള്ള ആദ്യത്തെ പൈത്തൺ സ്ക്രിപ്റ്റ് ഇത് വിജയകരമായി ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞ നാല് ദിവസത്തിനുള്ളിൽ ഫേസ്ബുക്ക് ഗ്രാഫ് api യിൽ നിന്ന് എക്സ്ട്രാക്റ്റുചെയ്യാൻ കഴിയുന്ന പരമാവധി പോസ്റ്റുകളുള്ള മികച്ച 5 ഉപയോക്താക്കളെ പ്രതിനിധീകരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഈ ഡാറ്റ നമുക്ക് ഒരു ബാർ ചാർട്ട് രൂപത്തിൽ പ്രതിനിധീകരിക്കാം പൈത്തണിൽ കോഡ് എഴുതാൻ ആരംഭിക്കുന്നതിന് നമുക്ക് vi എഡിറ്റർ ആരംഭിക്കാം നമ്മൾ v i യും ഫയലിന്റെ പേരും ടൈപ്പ് ചെയ്യണം നമുക്ക് അതിനെ vi bar highcharts dot p y എന്ന് നാമകരണം ചെയ്യാം നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത റാപ്പർ ഇറക്കുമതി ചെയ്തുകൊണ്ട് ആരംഭിക്കും അതിനാൽ ഹൈചാർട്ടുകൾ ഇറക്കുമതി ഹൈചാർട്ടിൽ നിന്ന് കമാൻഡ് പോകുന്നു അടുത്തതായി ഞങ്ങളുടെ ഡാറ്റ നൽകുന്ന ഒരു കണ്ടെയ്നർ നമ്മൾ നിർവ്വചിക്കുന്നു ഹൈചാർട്ടിന് തുല്യമായ ചാർട്ടുകൾ എഴുതിക്കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അടുത്തതായി ഞങ്ങളുടെ ഗ്രാഫ് വ്യക്തമാക്കുന്ന ഒരു കൂട്ടം ഓപ്ഷനുകൾ നമ്മൾ നിർവ്വചിക്കുന്നു അതിനാൽ നമ്മൾ ഓപ്ഷനുകളുടെ ഒരു നിഘണ്ടു സൃഷ്ടിക്കുന്നു നമ്മൾ ചാർട്ട് തരം ഒരു ബാർ ചാർട്ടായി വ്യക്തമാക്കുന്നു അടുത്തതായി ചാർട്ടിന്റെ ശീർഷകം നമ്മൾ നിർവ്വചിക്കുന്നു ഇത് വാചകത്തിൽ നിർവചിച്ചിരിക്കുന്നു നമുക്ക് അതിനെ ഹൈചാർട്ട് ബാർ എന്ന് നാമകരണം ചെയ്യാം ഇപ്പോൾ ഏതെങ്കിലും ചാർട്ടിനായി നമ്മൾ ഇതിഹാസങ്ങളെ നിർവ്വചിക്കേണ്ടതുണ്ട് അതിനാൽ നമ്മൾ ആദ്യം ലെജൻഡ്സ് ഇനേബിൾ ചെയ്യേണ്ടതുണ്ട് ബാർ ചാർട്ടിലെ 5 ഉപയോക്താക്കളിൽ ഓരോന്നിനെയും പ്രതിനിധീകരിക്കാൻ ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ ഉപയോക്താക്കളുടെ വിഭാഗങ്ങളായി നമ്മൾ x axis നിർവ്വചിക്കും ഉപയോക്താവ് 1 ഉപയോക്താവ് 2 ഉപയോക്താവ് 3 ഉപയോക്താവ് 4 ഉപയോക്താവ് 5 എന്നിങ്ങനെ നമ്മൾ വിഭാഗങ്ങൾ ആരംഭിക്കുന്നു നമുക്ക് y അക്ഷവും നിർവ്വചിക്കാം അതിനാൽ ഈ ഓരോ വിഭാഗം ഉപയോക്താക്കൾക്കും അനുയായികളുടെ എണ്ണം വൈ ആക്സിസ് നിർവ്വചിക്കും അതിനാൽ ശീർഷകം നമ്മൾ നിർവ്വചിക്കുന്ന രീതി ടെക്സ്റ്റിലേക്ക് പോകുന്നു കൂടാതെ നമുക്ക് അനുയായികളുടെ എണ്ണമായി ടെക്സ്റ്റ് വ്യക്തമാക്കാനും ആയിരക്കണക്കിന് എഴുതാനും കഴിയും അതിനാൽ അടുത്തതായി നമ്മൾ ബാർ ഗ്രാഫിൽ പ്രതിനിധീകരിക്കേണ്ട ഡാറ്റയോ പോസ്റ്റോ ചേർക്കും ഓരോ ദിവസവും ഈ 5 ഉപയോക്താക്കൾക്കായി ഓരോ പോസ്റ്റുകളുടെ എണ്ണത്തിനായി നമ്മൾ ഒരു ഡാറ്റ അറേ സൃഷ്ടിക്കും ഉദാഹരണത്തിന് ഡാറ്റ 1 ഞങ്ങളുടെ ആദ്യ നിരയായിരിക്കും നമുക്ക് അത് ചില ക്രമരഹിത മൂല്യങ്ങളായി നിർവ്വചിക്കാം അതുപോലെ രണ്ടാമത്തെ ഉപയോക്താവിനായി നമ്മൾ ഡാറ്റ 2 നിർവ്വചിക്കും അതുപോലെ നമ്മൾ ഓരോ 4 ദിവസത്തിലും എല്ലാ 5 ഉപയോക്താക്കൾക്കും ഡാറ്റ മൂല്യങ്ങൾ നിർവ്വചിക്കും നമ്മൾ ഈ ഓപ്ഷനുകൾ സൃഷ്ടിച്ചുകഴിഞ്ഞാൽ നമ്മൾ മുമ്പ് സൃഷ്ടിച്ച കണ്ടെയ്നറിൽ അവ ചേർക്കും ഇപ്പോൾ ഞാൻ സൃഷ്ടിച്ച വേരിയബിൾ ഓപ്ഷനുകൾ കൈമാറിക്കൊണ്ട് ചാർട്ടുകൾ എഴുതി നിഘണ്ടു ഓപ്ഷനുകൾ ക്രമീകരിച്ചുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നു അവസാനമായി ഒരു ചാർട്ട് ഡോട്ട് ആഡ് ഡാറ്റ സെറ്റ് എഴുതി ചാർട്ട് കണ്ടെയ്നറിലേക്ക് നമ്മൾ ഡാറ്റ സെറ്റുകൾ ചേർക്കും ഞങ്ങളുടെ ആദ്യ ഡാറ്റാ ശ്രേണി നമ്മൾ കൈമാറും ബാർ ചാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് ദിവസം 1 ആയി എഴുതുക നാല് ദിവസവും നമ്മൾ ഒരേ കാര്യം ആവർത്തിക്കും ഇപ്പോൾ ഈ കോഡ് ഒരു html ഫയൽ സൃഷ്ടിക്കും അത് ഒരു ചാർട്ട് ഡോട്ട് സേവ് ഫയൽ എഴുതി നമ്മുടെ ലോക്കൽ ഡയറക്ടറിയിൽ നമുക്ക് സേവ് ചെയ്യാം ഇപ്പോൾ നമുക്ക് vi എഡിറ്ററിൽ നിന്ന് പുറത്തുപോകാനും ഫയൽ സംരക്ഷിക്കാനും ബാർ ഹൈചാർട്ടുകളായി പേര് വ്യക്തമാക്കാം നമുക്ക് ആദ്യം എസ്കെയപ്പ് അമർത്താം തുടർന്ന് കോളൻ w q എഴുതുക ഇപ്പോൾ ഈ ഫയൽ പ്രവർത്തിപ്പിക്കാൻ നമ്മൾ പൈത്തൺ കമാൻഡും ബാർ ഹൈചാർട്ടുകളായ ഫയലിന്റെ പേരും ടൈപ്പ് ചെയ്യും അതിനാൽ ഇത് നിങ്ങളുടെ പ്രാദേശിക ഡയറക്ടറിയിൽ ബാർ ഹൈചാർട്ടുകളുടെ പേരിൽ ഒരു ഫയൽ സൃഷ്ടിക്കുമായിരുന്നു ഇപ്പോൾ ഈ ഫയൽ കാണുന്നതിന് നിങ്ങൾക്ക് ഫയലിന്റെ പേരിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്രോം ബ്രൌസറിൽ കാണാം അതിനാൽ ഇതാണ് ബാർ ഗ്രാഫ് ഈ ഉപയോക്താക്കളിൽ ഓരോരുത്തർക്കും നിങ്ങൾക്ക് ഹോവർ ചെയ്യാനും മൂല്യങ്ങൾ കാണാനും കഴിയും അതിനാൽ ദിവസം 1 എന്നത് 1 0 7 ദിവസം 4 എന്നത് 1 0 5 2 ആണ് അതിനാൽ ഓരോ ദിവസത്തെയും വ്യത്യസ്ത നിറങ്ങളിലുള്ള ബാറുകളാൽ പ്രതിനിധീകരിക്കുന്നു നിങ്ങൾ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു പ്രത്യേക ദിവസം നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാനും കഴിയും അതിനാൽ ഞാൻ ഒന്നാം ദിവസം ക്ലിക്കുചെയ്യുകയാണെങ്കിൽ ഗ്രാഫ് ഇപ്പോൾ മറ്റ് 3 ദിവസത്തെ മൂല്യങ്ങൾ കാണിക്കുന്നു അതുപോലെ എനിക്ക് ദിവസം 3 ഒഴിവാക്കി ദിവസം 4 ദിവസം 2 എന്നിവ മാത്രമേ കാണാൻ കഴിയൂ നമുക്ക് ഈ ഗ്രാഫ് ഒരു png ഇമേജായി ഡൌൺലോഡ് ചെയ്യാനും സംരക്ഷിക്കാനും കഴിയും പൈത്തൺ സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ഒരു ബാർ ചാർട്ട് എങ്ങനെ സൃഷ്ടിക്കാം അടുത്തതായി നമ്മൾ ഒരു ലൈൻ ചാർട്ട് എന്ന് വിളിക്കപ്പെടുന്ന രണ്ടാമത്തെ തരം ഗ്രാഫ് നോക്കുന്നു ഒരു നേർരേഖ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിട്ടുള്ള ഡാറ്റ പോയിന്റുകളുടെ ഒരു ശ്രേണി കാണിക്കുന്ന ചാർട്ടാണ് ലൈൻ ചാർട്ട് കാലാകാലങ്ങളിൽ മാറുന്ന ഡാറ്റ ദൃശ്യവൽക്കരിക്കാൻ അവ മിക്കപ്പോഴും ഉപയോഗിക്കുന്നു കാലക്രമേണ ഒരു ഉപയോക്താവിന്റെ ഇനിപ്പറയുന്ന പാറ്റേണുകൾ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക വർഷത്തിലെ ഓരോ മാസത്തെയും അനുയായികളുടെ എണ്ണം നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് കരുതുക ഒരു ലൈൻ ചാർട്ട് ഉപയോഗിച്ച് നമുക്ക് അതിനെ പ്രതിനിധീകരിക്കാം പൈത്തൺ സ്ക്രിപ്റ്റ് സൃഷ്ടിക്കാൻ നമുക്ക് vi എഡിറ്ററിൽ നിന്ന് ആരംഭിച്ച് ഫയലിന് ലൈൻ ഹൈചാർട്ടുകൾ ഡോട്ട് പൈ എന്ന് നാമകരണം ചെയ്യാം മുമ്പത്തെ അതേ ഘട്ടങ്ങൾ നമ്മൾ പിന്തുടരേണ്ടതുണ്ട് അതിനാൽ നമ്മൾ ആദ്യം 'ഫ്രം ഹൈചാർട്സ് ഇമ്പോർട്ട് ഹൈചാർട്ട്' എന്ന ഇമ്പോർട്ട് പ്രസ്താവന എഴുതും ഞങ്ങളുടെ ചാർട്ട് റെൻഡർ ചെയ്യുന്നതിന് നമ്മൾ കണ്ടെയ്നർ നിർവ്വചിക്കുന്നു അടുത്തതായി നമ്മൾ ഒരു നിശ്ചിത സെറ്റ് ഓപ്ഷനുകൾ നിർവ്വചിക്കുന്നു ആദ്യത്തേത് ചാർട്ടിന്റെ തരമായിരിക്കും നിങ്ങൾ അതിനെ ഒരു ലൈൻ ചാർട്ട് എന്ന് വിളിക്കുന്നു അടുത്തതായി ടെക്സ്റ്റ് ഫീൽഡ് ഉപയോഗിച്ച് നമ്മൾ ശീർഷകം നിർവ്വചിക്കേണ്ടതുണ്ട് കൂടാതെ അത് ഒരു ഹൈചാർട്ട് ലൈനായി നിലനിർത്തുകയും വേണം അതുപോലെ നമ്മൾ ലെജൻഡ് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട് അതിനാൽ എനേബിൾഡ് ആസ് ട്രൂ എന്ന് എഴുതുക വീണ്ടും x ആക്സിസ് വർഷത്തിലെ മാസങ്ങൾക്കുള്ള വിഭാഗങ്ങളെ നമ്മൾ ഇവിടെ നിർവ്വചിക്കും അതിനാൽ നമ്മൾ അതിനെ നിർവ്വചിക്കുന്ന രീതിയാണ് എല്ലാ മാസങ്ങളിലും ഡിസംബറിലും നമുക്ക് എഴുതാം ടെക്സ്റ്റ് ഫീൽഡ് എഴുതുന്നതിലൂടെ നമുക്ക് x ആക്സിസിന്റെ ശീർഷകം നിർവ്വചിക്കാനും വർഷത്തിലെ മാസങ്ങളായി നിർവചിക്കാനും കഴിയും ബ്രാക്കറ്റുകൾ അടയ്ക്കുക വൈ ആക്സിസിനെ സംബന്ധിച്ചിടത്തോളം അക്ഷം എന്താണ് പ്രതിനിധീകരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നിർവ്വചിക്കാം അതിനാൽ ശീർഷകം പിന്തുടരുന്നവരുടെ എണ്ണമായി നമുക്ക് നിർവചിക്കാം അതിനാൽ നമ്മൾ ഇപ്പോൾ എല്ലാ ബ്രാക്കറ്റുകളും അടയ്ക്കും അവസാനമായി നമ്മൾ ഞങ്ങളുടെ ഡാറ്റ ശ്രേണി നിർവ്വചിക്കും നമുക്ക് ചില ഡമ്മി മൂല്യങ്ങൾ ഇവിടെ എഴുതാം മൂന്ന് ഉപയോക്താക്കൾക്കുള്ള ഡാറ്റ ശ്രേണി നമുക്ക് നിർവചിക്കാം നമ്മൾ ഡാറ്റ അറേകൾ നിർവ്വചിച്ചുകഴിഞ്ഞാൽ ചാർട്ട് ഡോട്ട് സെറ്റ് നിഘണ്ടു ഓപ്ഷനുകൾ ഓപ്ഷനുകളായി എഴുതി കണ്ടെയ്നറിൽ ചേർക്കുക എന്നതാണ് അടുത്ത ഘട്ടം ഒടുവിൽ ഞങ്ങളുടെ ഡാറ്റ സെറ്റുകൾ കണ്ടെയ്നറിലേക്ക് ആഡ് ഡാറ്റാ സെറ്റ് എഴുതുക ആദ്യം ഡാറ്റ 1 ചാർട്ടിന്റെ തരം ഒരു ലൈൻ ചാർട്ടാണ് അത് ഉപയോക്താവിന് 1 ആണ് അതുപോലെ എല്ലാ ഉപയോക്താക്കൾക്കും നമ്മൾക്കത് എഴുതാം അവസാനമായി കമാൻഡ് ചാർട്ട് ഡോട്ട് സേവ് ഫയൽ എഴുതി ഫയൽ സംരക്ഷിക്കുക കൂടാതെ നമുക്ക് ഫയലിന് ലൈൻ ഹൈചാർട്ടുകളായി പേരുനൽകാം ഫയൽ സേവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇത് മാറ്റേണ്ടതുണ്ട് ഈ വരി മാറ്റുകയും ഓപ്ഷനുകളായി എഴുതുകയും വേണം ഈ തെറ്റിന് ക്ഷമിക്കണം ഇപ്പോൾ ഫയൽ സംരക്ഷിക്കാൻ നമ്മൾ ആദ്യം എസ്കേപ്പ് അമർത്തി കോളൻ w q എഴുതുക ഫയൽ പ്രവർത്തിപ്പിക്കാൻ പൈത്തൺ ലൈൻ ഹൈചാർട്ടുകൾ ടൈപ്പ് ചെയ്യാം ഇത് നെയിം ലൈൻ ഹൈചാർട്ടുകളുള്ള ഒരു html ഫയൽ സൃഷ്ടിക്കുമായിരുന്നു നമുക്ക് ഇപ്പോൾ ക്രോം ബ്രൌസർ ഉപയോഗിച്ച് അത് തുറക്കാനാകും വീണ്ടും ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്രോം ബ്രൌസറിൽ തുറക്കുക ഇത് ഓരോ മൂന്ന് ഉപയോക്താക്കൾക്കുമുള്ള ലൈൻ ചാർട്ട് പ്രതിനിധീകരിക്കുന്നു ഈ ദൃശ്യവൽക്കരണത്തിന്റെ ഭംഗി അവ ശരിക്കും സംവേദനാത്മകമാണെന്ന വസ്തുത ഉയർത്തിക്കാട്ടുന്നു ഒരാൾക്ക് ധാരാളം കാര്യങ്ങൾ ഉപയോഗിച്ച് കളിക്കാൻ കഴിയും ഉദാഹരണത്തിന് എനിക്ക് ഗ്രാഫിൽ നിന്ന് ഉപയോക്താവിനെ 2 ഒഴിവാക്കാം കൂടാതെ ഉപയോക്തൃ 1 ഉപയോക്തൃ 2 എന്നിവയുടെ പാറ്റേണുകൾ കാണുക ഞാൻ ഗ്രാഫുകളിലോ ഡാറ്റ പോയിന്റുകളിലോ ഹോവർ ചെയ്യുമ്പോൾ ഓരോ ഉപയോക്താവിന്റെയും മൂല്യങ്ങൾ എനിക്ക് കാണാൻ കഴിയും അതിനാൽ ബാർ ഗ്രാഫ് ഡാറ്റ പോയിന്റുകളെ ചതുരാകൃതിയിലുള്ള ബാറുകളായി കാണിക്കുമ്പോൾ ലൈൻ ചാർട്ടുകൾ ഓരോ ഡാറ്റ പോയിന്റുകളെയും ബന്ധിപ്പിച്ച് ഒരു നേർരേഖയായി കാണിക്കുന്നു ശരി അതിനാൽ ഇപ്പോൾ നമ്മൾ മറ്റൊരു പ്ലോട്ട് നോക്കുന്നു അതിനെ സ്കാറ്റർ പ്ലോട്ട് എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്ലോട്ട് സൃഷ്ടിക്കാൻ നമ്മൾക്ക് ട്വിറ്ററിൽ രണ്ട് സെറ്റ് ഉപയോക്താക്കളുണ്ടെന്ന് കരുതുക ഒന്ന് സെലിബ്രിറ്റി അക്കൌണ്ടുകളുടെ കൂട്ടമാണ് മറ്റൊന്ന് സാധാരണ അക്കൌണ്ടുകളുടെ ഒരു കൂട്ടമാണ് ഈ അക്കൌണ്ടുകളിൽ ഓരോന്നിനും അഞ്ച് ഉപയോക്താക്കൾ വീതമുണ്ട് രണ്ട് സെറ്റുകളിലെയും അഞ്ച് ഉപയോക്താക്കളുടെയും ഫോളോവേഴ്സിന്റെ പാറ്റേണുകൾ കാണാൻ ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നു ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം ഫോളോവേഴ്സ് എന്നത് ഉപയോക്തൃ x നെ പിന്തുടരുന്ന ആളുകളുടെ കൂട്ടവും സുഹൃത്തുക്കൾ x പിന്തുടരുന്ന ആളുകളുടെ ഗണവുമായിരിക്കും അതിനാൽ ഇപ്പോൾ സ്കാറ്റർ പ്ലോട്ടിനായി സ്ക്രിപ്റ്റ് എഴുതാൻ നമ്മൾ vi എഡിറ്റർ എഴുതുകയും ഫയലിന് സ്കാറ്റർ ഹൈചാർട്ടുകളുടെ പേര് നൽകുകയും ചെയ്യും ഹൈചാർട്ടുകൾ ഇറക്കുമതി ചെയ്തുകൊണ്ട് നമ്മൾ ആരംഭിക്കും അടുത്തതായി ഒരു ഹൈചാർട്ടിനായി നമ്മൾ കണ്ടെയ്നർ നിർവ്വചിക്കുന്നു ചാർട്ടിനുള്ള ഓപ്ഷനുകളുടെ ഗണം നിർവ്വചിക്കുക എന്നതാണ് അടുത്തത് ആദ്യത്തേത് ചാർട്ട് തരമായിരിക്കും ഈ ചാർട്ടിനുള്ള തരം ചിതറിക്കിടക്കുന്നു അടുത്തതായി നമ്മൾ ചാർട്ടിന്റെ ശീർഷകം നിർവ്വചിക്കുകയും വാചകം ഹൈചാർട്ടുകൾ ചിതറിക്കിടക്കുകയും ചെയ്യാം ഇതിഹാസം പ്രവർത്തനക്ഷമമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ നമ്മൾ പ്രാപ്തമാക്കിയതാണ് ശരി എന്ന് എഴുതാം ഇപ്പോൾ അനുയായികളായ x ആക്സിസ് നിർവ്വചിക്കുക നമ്മൾ അത് x അക്ഷമായി എഴുതി തുടങ്ങും അപ്പോൾ നമ്മൾ ശീർഷകം നിർവ്വചിക്കേണ്ടതുണ്ട് തുടർന്ന് നമ്മൾ വാചകം നിർവ്വചിക്കും ആയിരക്കണക്കിന് വരുന്ന അനുയായികളുടെ എണ്ണമായി നമുക്ക് അത് നിലനിർത്താം അതുപോലെ നമ്മൾ വൈ ആക്സിസ് നിർവ്വചിക്കേണ്ടതുണ്ട് നമുക്ക് ആയിരക്കണക്കിന് സുഹൃത്തുക്കളായി വീണ്ടും സൂക്ഷിക്കാം നമുക്ക് ബ്രാക്കറ്റുകൾ അടയ്ക്കേണ്ടതുണ്ട് അടുത്തതായി നമ്മൾ ഡാറ്റ അറേ നിർവ്വചിക്കേണ്ടതുണ്ട് അതിനാൽ നമ്മൾക്ക് രണ്ട് സെറ്റ് ഉപയോക്താക്കളുണ്ട് ഒരാൾ സെലിബ്രിറ്റി ഉപയോക്താവാണ് മറ്റൊരാൾ ഒരു സാധാരണ ഉപയോക്താവാണ് കൂടാതെ ഈ സെറ്റുകളിൽ ഓരോന്നിനും 5 ഉപയോക്താക്കൾ വീതമുണ്ട് ഓരോ 5 ഉപയോക്താക്കൾക്കും ഇപ്പോൾ അനുയായികളും സുഹൃത്തുക്കളുമുണ്ട് അതിനാൽ ഡാറ്റ സെറ്റ് 1 ഉപയോക്താവിന് 161 ഫോളോവേഴ്സും 51 സുഹൃത്തുക്കളും ഉണ്ടെന്ന് കരുതുക അടുത്ത ശ്രേണി 167 ഫോളോവേഴ്സും 59 സുഹൃത്തുക്കളും അങ്ങനെ എല്ലാ 5 ഉപയോക്താക്കൾക്കും ആയിരിക്കും ഡാറ്റാ അറേ നമ്മൾ സൃഷ്ടിച്ചുകഴിഞ്ഞാൽ അടുത്ത ഘട്ടം അത് കണ്ടെയ്നറിലേക്ക് ചേർക്കുക എന്നതാണ് അതിനാൽ ചാർട്ട് ഡോട്ട് നിഘണ്ടു ഓപ്ഷനുകൾ സജ്ജമാക്കുകയും നമ്മൾ ഞങ്ങളുടെ നിഘണ്ടു ഒബ്ജക്റ്റ് കൈമാറുകയും ചെയ്യും അടുത്തതായി നമ്മൾ ഡാറ്റ സെറ്റ് ചേർക്കുന്നു അതിനാൽ ഇത് ഡാറ്റ ഒന്നായിരിക്കും ചാർട്ട് തരം ചിതറിക്കിടക്കുന്നു സെറ്റ് സെലിബ്രിറ്റി അക്കൌണ്ടുകളാണ് നമുക്ക് നിറം നിർവചിക്കാനും കഴിയും അതിനാൽ നമുക്ക് അത് ചുവപ്പ് എന്ന് നിർവചിക്കാം അതിനാൽ വർണ്ണ കോമ്പിനേഷനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നമ്മൾക്ക് എല്ലായ്പ്പോഴും ഇത് ഗൂഗിൾ ചെയ്യാം ഇവയാണ് സാധാരണ വർണ്ണ കോഡുകൾ അതുപോലെ അടുത്ത ഡാറ്റ സെറ്റിനായി നമ്മൾ നിർവ്വചിക്കും ഒടുവിൽ നമ്മൾ ഞങ്ങളുടെ ഫയൽ സ്കാറ്റർ ഹൈചാർട്ടുകൾ എന്ന് നാമകരണം ചെയ്യുന്നതിനാൽ അത് സംരക്ഷിക്കും അതിനാൽ ഈ പൈത്തൺ ഫയൽ സംരക്ഷിക്കാൻ ആദ്യം എസ്കേപ്പ് അമർത്തുക തുടർന്ന് കോളൻ w q എഴുതി എന്റർ അമർത്തുക ഇപ്പോൾ ഫയൽ പ്രവർത്തിപ്പിക്കാൻ നമുക്ക് പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്യാം Html ഫയൽ കാണാൻ നമുക്ക് chrome ബ്രൌസറിലേക്ക് പോകാം സ്കാറ്റർ പ്ലോട്ടുകളിൽ ഓരോ x ഉം y അക്ഷവും ചില മൂല്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഈ പോയിന്റ് പ്രധാനമായും അർത്ഥമാക്കുന്നത് x എന്നത് 155 ഉം y എന്നത് 53 ഉം ആണ് മറ്റെല്ലാ മൂല്യങ്ങൾക്കും സമാനമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്കാറ്റർ പ്ലോട്ടുകൾ ലൈൻ പ്ലോട്ടുകൾക്ക് സമാനമാണ് ലൈൻ പ്ലോട്ടുകളിൽ ഈ ഡാറ്റാ പോയിന്റുകൾ ഓരോന്നും ഒരു ലൈനിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നു അതേസമയം സ്കാറ്റർ പ്ലോട്ടുകളിൽ ഇത് ഒരു വ്യത്യസ്ത സെറ്റ് ഡാറ്റ പോയിന്റുകളായി പ്രതിനിധീകരിക്കുന്നു അവസാനമായി ഞാൻ അവസാന ചാർട്ട് തരം കവർ ചെയ്യും അത് ഒരു ബബിൾ ചാർട്ട് ആണ് സ്കാറ്റർ പ്ലോട്ടുകൾക്ക് സമാനമായി ഓരോ പോയിന്റും ഒരു ബബിൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു കുമിളയുടെ വലുപ്പം കൊണ്ട് പ്രതിനിധീകരിക്കുന്ന ഒരു അധിക മാനം നമുക്കുണ്ട് അതിനാൽ വലുതാണെങ്കിൽ കുമിളയുടെ വലുപ്പം വലുതായിരിക്കും വലിപ്പം ചെറുതാണെങ്കിൽ കുമിളയുടെ വലുപ്പം ചെറുതായിരിക്കും ഈ സ്കാറ്റർ പ്ലോട്ടുകൾ ബബിൾ ചാർട്ടുകൾ എന്നിവ പോലെ അവ രണ്ട് അക്ഷങ്ങളിലും മൂല്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഇപ്പോൾ x എന്ന ഒരു ട്വിറ്റർ ഉപയോക്താവ് y എണ്ണം ട്വീറ്റുകൾ ഒരു പ്രത്യേക ദിവസം പോസ്റ്റ് ചെയ്തു എന്നിരിക്കട്ടെ നമ്മൾ കോഡ് ചെയ്യുന്ന രീതി ഇനി പറയുന്ന പോലെ ആയിരിക്കും x എന്നത് ഉപയോക്താവ് പോസ്റ്റ് ചെയ്ത സമയത്തെ പ്രതിനിധീകരിക്കുന്നു ആ ദിവസം ഒരു പ്രത്യേക ട്വീറ്റ് പാറ്റേൺ ഉണ്ടെങ്കിൽ y ഒന്നു എന്ന് കാണിക്കും ട്വീറ്റ് ഇല്ലെങ്കിൽ പൂജ്യം എന്ന് കാണിക്കും z ഒരു പ്രത്യേക ദിവസം പോസ്റ്റ് ചെയ്യുന്ന ട്വീറ്റുകളുടെ എണ്ണത്തെ പ്രതിനിധീകരിക്കും അതിനാൽ നമുക്ക് x y z എന്നീ മൂന്ന് അളവുകൾ ഉണ്ടായിരിക്കും അത് ഇപ്പോൾ ഒരു ബബിൾ ചാർട്ടിൽ പ്രതിനിധീകരിക്കും ഇപ്പോൾ പൈത്തൺ സ്ക്രിപ്റ്റ് എഴുതാൻ നമ്മൾ വീണ്ടും vi എഡിറ്ററിലേക്ക് പോയി ഫയലിന് ബബിൾ ഹൈചാർട്ടുകൾ എന്ന് പേരിടും ഈ കോഡിൽ ഗ്രാഫുകൾ സൃഷ്ടിക്കുമ്പോൾ തീയതി ഫോർമാറ്റുകളെ എങ്ങനെ പ്രതിനിധാനം ചെയ്യാമെന്നും നമ്മൾ പഠിക്കും എന്നാൽ ആരംഭിക്കുന്നതിന് ഹൈചാർട്ടുകൾ ഇറക്കുമതി ഹൈചാർട്ടിൽ നിന്നുള്ള സ്റ്റാൻഡേർഡ് ഇൻപുട്ട് പ്രസ്താവനകൾ എഴുതാം ഇപ്പോൾ നമ്മൾ മൂല്യങ്ങളെ തീയതി ഫോർമാറ്റുകളായി പ്രതിനിധാനം ചെയ്യേണ്ടതിനാൽ ഡേറ്റ് ടൈം എന്നറിയപ്പെടുന്ന മറ്റൊരു ഇൻബിൽറ്റ് പൈത്തൺ പാക്കേജ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതിനാൽ നമ്മൾ 'ഇമ്പോർട്ട് ഡേറ്റ് ടൈം' എന്ന് എഴുതാം ഹൈചാർട്ടിന് തുല്യമായ ഒരു ചാർട്ട് എഴുതിക്കൊണ്ട് നമ്മൾ ഇപ്പോൾ ഞങ്ങളുടെ കണ്ടെയ്നർ പ്രഖ്യാപിക്കുന്നു അടുത്തത് ഞങ്ങളുടെ ഗ്രാഫ് നിർവ്വചിക്കുന്ന ഓപ്ഷനുകളുടെ ഒരു കൂട്ടമാണ് ആദ്യം ചാർട്ടിന്റെ തരം ആയിരിക്കും അതിനാൽ ഇവിടെ നമുക്ക് അതിനെ ഒരു ബബിൾ ചാർട്ട് എന്ന് വിളിക്കാം അടുത്തതായി ഗ്രാഫിന്റെ ശീർഷകം നമ്മൾ നിർവ്വചിക്കേണ്ടതുണ്ട് അത് വാചകമായി പ്രതിനിധീകരിക്കുന്നു നമുക്ക് അതിനെ ഒരു ഹൈചാർട്ട് ബബിൾ ആയി എഴുതാം ഇപ്പോൾ നമ്മൾ ഗ്രാഫിനായി ഇതിഹാസം പ്രാപ്തമാക്കേണ്ടതുണ്ട് നമ്മൾ മുമ്പ് നോക്കിയ മറ്റ് ഗ്രാഫുകളിൽ നിന്ന് വ്യത്യസ്തമായ ഭാഗം ഇപ്പോൾ വരുന്നു അതിനാൽ ഇവിടെ x അക്ഷം തീയതി സമയത്തിന്റെ ഫോർമാറ്റാണ് അതിനാൽ ഇപ്പോൾ നമ്മൾ ഈ അക്ഷങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന രീതിയാണ് x അക്ഷത്തിൽ ആരംഭിക്കുന്നത് ഇപ്പോൾ തീയതി സമയമായ ഫോർമാറ്റിന്റെ തരം നമ്മൾ ആദ്യം നിർവ്വചിച്ചു ഇപ്പോൾ ഈ ഓരോ അച്ചുതണ്ടിലും നമുക്ക് പ്രത്യേക ലേബലുകൾ ഉണ്ടായിരിക്കണം അതായത് ഓരോ പോയിന്റിനും ആ പ്രത്യേക പോയിന്റ് എന്താണ് പ്രതിനിധാനം ചെയ്യുന്നതെന്ന് നാം അറിയേണ്ടതുണ്ട് ഉദാഹരണത്തിന് 2016 ജനുവരി ആദ്യവാരം ഒരു വ്യക്തി ട്വീറ്റ് ചെയ്താൽ എനിക്ക് 2016 ജനുവരി ആദ്യത്തേത് എഴുതാൻ x axis ലെ പോയിന്റ് ആവശ്യമാണ് അതിനായി നമ്മൾ ലേബലുകൾ നിർവ്വചിക്കേണ്ടതുണ്ട് നമ്മൾ തീയതി ടൈം ലേബൽ ഫോർമാറ്റുകൾ എഴുതുന്നു അതിനാൽ ഈ തീയതി സമയ വസ്തുക്കളെ പ്രതിനിധീകരിക്കാൻ ചില സ്റ്റാൻഡേർഡ് മാർഗങ്ങളുണ്ട് ഉദാഹരണത്തിന് നമുക്ക് ദിവസം നിർവ്വചിക്കാൻ കഴിയുന്ന രീതിയാണ് ശതമാനം ഇ ശതമാനം ഇപ്പോൾ ഇവിടെ ശതമാനം 'ഇ' മാസത്തെ ദിവസത്തെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ അത് 1 മുതൽ 31 വരെയാണ് ജനുവരി ഫെബ്രുവരി ഫെബ്രുവരി എന്നിങ്ങനെ ചെറിയ മാസങ്ങളെയാണ് ബി ശതമാനം പ്രതിനിധീകരിക്കുന്നത് ഒരു ദിവസത്തിനുശേഷം നമ്മൾ മാസം നിർവ്വചിക്കേണ്ടതുണ്ട് നമുക്ക് അതിനെ ശതമാനം ബി ആയി പ്രതിനിധീകരിക്കാം ഇത് ഓരോ മാസത്തെയും ഹ്രസ്വ കോഡാണ് തുടർന്ന് നമുക്ക് y ശതമാനം ഉണ്ട് അത് വർഷത്തിലെ രണ്ട് ദിവസങ്ങളെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ വർഷം 2016 ആണെങ്കിൽ നമ്മൾ അത് 16 ആയി എഴുതാം ഒടുവിൽ നമ്മൾ വർഷം എഴുതുന്ന രീതി മൂലധനം Y ആയിരിക്കും അത് വർഷത്തിലെ നാല് അക്കങ്ങളെയും പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഇപ്പോൾ നമ്മൾ ബ്രാക്കറ്റുകൾ അടയ്ക്കേണ്ടതുണ്ട് അടുത്തതായി നമ്മൾ ഡാറ്റ അറേകൾ ചേർക്കേണ്ടതുണ്ട് വ്യത്യസ്ത ട്വീറ്റിംഗ് പാറ്റേണുകളുള്ള നാല് ഉപയോക്താക്കൾ നമ്മൾക്ക് ഉണ്ടെന്ന് കരുതുക അതിനാൽ ഡാറ്റ ഉപയോക്താവിന് 1 നമ്മൾ ഡാറ്റ അറേയെ നിർവ്വചിക്കുന്ന രീതിയാണ് ടൈം ടൈം ഒബ്ജക്റ്റ് അതിനാൽ ഓരോ ടൈം സ്റ്റാമ്പുകളും തീയതി സമയം മുതൽ തീയതി സമയം വരെ എഴുതുന്നതിലൂടെ ഒരു ഡേറ്റ് ടൈം ഒബ്ജക്റ്റായി പ്രതിനിധീകരിക്കുന്നു ഞാൻ പരാമീറ്ററുകൾ വ്യക്തമാക്കുന്നു ഉദാഹരണത്തിന് ഞാൻ 2016 എഴുതുകയാണെങ്കിൽ മാസവും തീയതിയും വ്യക്തമാക്കുക ആ പ്രത്യേക സമയത്ത് ഉപയോക്താവ് ട്വീറ്റ് ചെയ്യുന്നതിനാൽ നമ്മൾ Y യെ 1 ആയി നിർവ്വചിക്കുന്നു ട്വീറ്റുകളുടെ എണ്ണം 28 ആയി നമ്മൾ നിർവ്വചിക്കുന്നു അതിനാൽ 9 5 2016 ടൈം സ്റ്റാമ്പിൽ ഉപയോക്താവ് 1 നുള്ള ആദ്യ വസ്തുവാണിത് അതുപോലെ നമുക്ക് വ്യത്യസ്ത ടൈം സ്റ്റാമ്പ് മൂല്യങ്ങൾ ഉണ്ടായിരിക്കാം നമ്മൾ ക്രമരഹിതമായി ചില മൂല്യങ്ങൾ ഹാർഡ് കോഡ് ചെയ്യും ഡാറ്റ ഒബ്ജക്റ്റുകൾ സൃഷ്ടിച്ച ശേഷം നമ്മൾ അത് കണ്ടെയ്നറിൽ ചേർക്കേണ്ടതുണ്ട് അതിനാൽ ആദ്യം നമ്മൾ ചാർട്ട് ഡോട്ട് സെറ്റ് ഡിക്റ്റ് ഓപ്ഷനുകൾ എഴുതി ഓപ്ഷനുകൾ അറേ പാസാക്കിക്കൊണ്ട് ഓപ്ഷനുകൾ ചേർക്കും അടുത്തതായി നമ്മൾ ഡാറ്റ സെറ്റുകൾ ചേർക്കും അതിനാൽ ഇത് ഡാറ്റ ഒന്നായിരിക്കും ടൈപ്പ് ഒരു ബബിൾ ചാർട്ടാണ് നമ്മൾ ഇത് ഉപയോക്താവിന് 1 ചെയ്യുന്നു അവസാനമായി ഒരു സേവ് ഫയൽ എഴുതിക്കൊണ്ട് നമ്മൾ ചാർട്ട് സംരക്ഷിക്കുകയും അതിനെ ബബിൾ ഹൈചാർട്ട് എന്ന് നാമകരണം ചെയ്യുകയും ചെയ്യാം ഇപ്പോൾ ഫയൽ സേവ് ചെയ്യാൻ ആദ്യം എസ്കേപ്പ് അമർത്തുക തുടർന്ന് കോളൻ w q എഴുതി എന്റർ അമർത്തുക ഫയൽ പ്രവർത്തിപ്പിക്കാൻ നമ്മൾ പൈത്തണും ഫയലിന്റെ പേരും എഴുതുന്നു ഫയൽ കാണുന്നതിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്രോം ബ്രൌസറിൽ തുറക്കുന്നതിലൂടെ സൃഷ്ടിക്കപ്പെട്ട html വീണ്ടും തുറക്കാം അതിനാൽ x ആക്സിസ് പ്രതിനിധീകരിക്കുന്നത് ടൈംസ്റ്റാമ്പ് മൂല്യത്തെ പ്രതിനിധീകരിച്ച് മെയ് 10 മുതൽ ജൂലൈയിലെ ചില മൂല്യങ്ങൾ വരെയാണ് അവിടെ ഉപയോക്താക്കൾക്കിടയിൽ ചില ഓവർലാപ്പ് കാണാം നമുക്ക് ഓവർലാപ്പ് നീക്കംചെയ്യണമെങ്കിൽ ചില ഉപയോക്താക്കളെ തിരഞ്ഞെടുക്കാനാകില്ല ഉദാഹരണത്തിന് ഞാൻ ഉപയോക്താവ് 4 നീക്കം ചെയ്യുകയും ഞാൻ ഉപയോക്താവ് 1 നീക്കം ചെയ്യുകയും ചെയ്താൽ ഉപയോക്താവിന് 2 ഉപയോക്താവ് 3 എന്നിവയ്ക്കുള്ള പാറ്റേണുകൾ എനിക്ക് കാണാൻ കഴിയും അതിനാൽ ഇവിടെ ഈ കുമിളയുടെ വലുപ്പം 120 ആണ് ഇത് 51 ആയ ഈ കുമിളയുടെ വലുപ്പത്തേക്കാൾ കൂടുതലാണ് അതിനാൽ ബബിൾ ചാർട്ടുകളിൽ നമുക്ക് മൂന്ന് മൂല്യങ്ങളെ പ്രതിനിധീകരിക്കാം എക്സ് ആക്സിസ് സമയമാണ് ഉപയോക്താവ് ട്വീറ്റ് പോസ്റ്റുചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നത് y axis പോസ്റ്റുചെയ്ത ട്വീറ്റുകളുടെ വ്യാപ്തിയെ പ്രതിനിധാനം ചെയ്യുന്ന z അക്ഷം അങ്ങനെ നമ്മൾ നാല് ചാർട്ടുകൾ സൃഷ്ടിക്കും ബാർ ചാർട്ട് ലൈൻ ചാർട്ട് സ്കാറ്റർ ചാർട്ട് പൈത്തൺ സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ബബിൾ ചാർട്ട് ഇപ്പോൾ ഞാൻ ഹൈചാർട്ട്സ് ക്ലൌഡ് എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു ക്ലൌഡ് പ്ലാറ്റ്ഫോമിനെക്കുറിച്ച് സംസാരിക്കും അവിടെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം അത് സ്വന്തമായി ചാർട്ടുകൾ സൃഷ്ടിക്കും ഈ ക്ലൌഡ് പ്ലാറ്റ്ഫോമിൽ https cloud com ൽ എത്തിച്ചേരാനാകും നിങ്ങൾക്ക് ഒരു ഉപയോക്തൃ അക്കൌണ്ട് സൃഷ്ടിക്കാൻ കഴിയും അതുവഴി ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമ്മൾ സൃഷ്ടിക്കുന്ന ഗ്രാഫുകൾ നിങ്ങൾക്ക് സംരക്ഷിക്കാനാകും അതിനാൽ നമ്മൾ ആദ്യം ഒരു ചാർട്ട് സൃഷ്ടിക്കാൻ പോകും ഇവിടെ നമുക്ക് ഒന്നുകിൽ നമ്മുടെ ഡാറ്റ പേസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു csv ഫയൽ വലിച്ചിടുകയോ ചെയ്യാം അതിനാൽ പൈത്തണിന്റെ സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ലൈൻ ഗ്രാഫ് സൃഷ്ടിക്കാൻ നമ്മൾ ഉപയോഗിച്ച ഡാറ്റയാണിത് ഞാൻ ഇത് csv ഫയലിലേക്ക് ചേർത്തു നമുക്ക് ഇവിടെ നിന്ന് എല്ലാ ഡാറ്റയും പകർത്താനാകും അത് ക്ലൌഡ് പ്ലാറ്റ്ഫോമിലേക്ക് ഒട്ടിക്കുക പൈത്തൺ സ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ സൃഷ്ടിച്ച ലൈൻ ചാർട്ട് ഇത് യാന്ത്രികമായി സൃഷ്ടിക്കുന്നു എനിക്ക് മൂല്യം മാറ്റാൻ കഴിയും ഉദാഹരണത്തിന് എനിക്ക് ഇത് അഞ്ച് ആക്കണമെങ്കിൽ ഗ്രാഫ് സ്വയമേവ അതിന്റെ മൂല്യങ്ങൾ മാറ്റും അതിനാൽ ഇവിടെ എനിക്ക് മൂല്യം 30 എന്ന് മാറ്റാൻ കഴിയും മൂല്യം പ്രതിഫലിക്കുന്നു പൈത്തൺ സ്ക്രിപ്റ്റിൽ നിന്ന് നമ്മൾ നിരീക്ഷിച്ചതുപോലെ ഇവിടെ നമ്മൾക്ക് ഉപയോക്താക്കളെ ഫിൽട്ടർ ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് എനിക്ക് ഉപയോക്താവിനെ 2 ഫിൽട്ടർ ചെയ്യാനും ഗ്രാഫ് കാണാനും കഴിയും ഓരോ ടൂൾടിപ്പുകളും ഓരോ ഡാറ്റ പോയിന്റുകളുടെയും മൂല്യം നമ്മോട് പറയുന്നു ഈ ചാർട്ട് സൃഷ്ടിച്ചതിനുശേഷം നമുക്ക് യഥാർത്ഥത്തിൽ ചാർട്ട് സംരക്ഷിക്കാൻ കഴിയും ചാർട്ട് സേവ് ചെയ്തുകഴിഞ്ഞാൽ ചാർട്ട് ഒരു png ഇമേജായി ഡൌൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അത് നമുക്ക് പിന്നീട് ഉപയോഗിക്കാം അതിനാൽ ഇത് ഒരു ലൈൻ ചാർട്ടിന്റെ ഉദാഹരണമായിരുന്നു ഒരു പൈത്തൺ സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ വികസിപ്പിച്ച മറ്റൊരു ബാർ ചാർട്ട് ഉദാഹരണം നോക്കാം അതിനാൽ നമുക്ക് ഡാറ്റ പകർത്താനും ഇവിടെ ഒട്ടിക്കാനും കഴിയും അതിനാൽ ഇവിടെ നമുക്ക് ഞങ്ങളുടെ ചാർട്ട് ഇഷ്ടാനുസൃതമാക്കാം അതിനാൽ ഞാൻ ടെംപ്ലേറ്റുകളിലേക്ക് പോകുന്നു ഞാൻ എഴുതുന്നു ബാർ ചാർട്ടിലേക്ക് പോകുക ഞാൻ ഈ ബാർ ചാർട്ടിൽ ക്ലിക്കുചെയ്യുക ഇപ്പോൾ ഇത് ഒരു ബാർ ചാർട്ടാക്കി മാറ്റുന്നു എനിക്ക് നിരവധി വ്യതിയാനങ്ങൾ ഉണ്ടാകാം ഉദാഹരണത്തിന് ഓരോ ബാറുകളിലെയും മൂല്യം എന്നോട് പറയുന്നിടത്ത് എനിക്ക് ഇത് ലഭിക്കും അല്ലെങ്കിൽ എനിക്ക് ഇത് മൾട്ടികളർ ബാറുകളായി ലഭിക്കും ഈ ക്ലൌഡ് പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമായ ധാരാളം ഓപ്ഷനുകൾ ഉണ്ട് നിങ്ങൾക്ക് പരീക്ഷിക്കാൻ നിങ്ങൾക്ക് പല തരത്തിലുള്ള സ്കാറ്ററുകളും ബബിൾ ചാർട്ടുകളും നിരകളും രേഖീയ ചാർട്ടുകളും ഉണ്ടായിരിക്കാം ഇന്നത്തെ ട്യൂട്ടോറിയലിനായി ഇത്രയും ആയിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ദയവായി അത് ചർച്ചാ ഫോറത്തിൽ ഉപേക്ഷിക്കാൻ മടിക്കേണ്ടതില്ല അവ എടുക്കുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്